സ്ക്രൂ ത്രെഡ് മെട്രോളജിയെക്കുറിച്ചുള്ള അടുത്ത പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് ഈ സ്ക്രൂകളുടെ ആവശ്യകത എന്താണ് എന്ന് നോക്കാം സ്ക്രൂ ത്രെഡ് അതാണ് ഈ ബോൾട്ടിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ത്രെഡ് താൽക്കാലിക അസംബ്ലികൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു വഴക്കം എനിക്ക് നൽകുന്നു അതിനാൽ എനിക്ക് 2 പീസ് കൂട്ടിച്ചേർക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ ബോൾട്ട് ഉപയോഗിക്കും ഒന്നുകിൽ എനിക്ക് അത് നേരിട്ട് പ്ലേറ്റിലേക്ക് ഉറപ്പിക്കാം അല്ലെങ്കിൽ മറുവശത്ത് ഒരു നട്ട് ഇട്ടു ഉറപ്പിക്കാൻ ശ്രമിക്കാം ഇത് താൽക്കാലിക അസംബ്ലിക്ക് ഉപയോഗിക്കുന്നു ഇത് ആവശ്യമാണ് കാരണം വളരെ സങ്കീർണ്ണമായ ജോമട്രി സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നിടത്തെല്ലാം നമുക്കു ഒരു പീസ് മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ല അത് ഒന്നിലധികം പീസുകൾ യോജിപ്പിച്ചു ചെയ്യേണ്ടി വരും ഒന്നുകിൽ നമുക്കു പശ ഉപയോഗിക്കേണ്ടി വരുംഅല്ലെങ്കിൽ ഈ ഫാസ്റ്റണിംഗ് അറ്റാച്ചുമെന്റ് ചെയുന്നത് വഴി സങ്കീർണ്ണമായ ഒരു ഘടന ഉണ്ടാക്കാൻ സാധിക്കും ഈ സങ്കീർണ്ണ ഘടന പരിമിതി മൂലമാകാം എനിക്ക് ഒരു വലിയ ബെഡ് ഇല്ല അതിനാൽ അത് ഇതാണ് രണ്ടാമത്തെ കാര്യം എനിക്ക് പതിവായി ഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിക്കും എനിക്ക് അസംബ്ലി മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ട് തുടർന്ന് യഥാർത്ഥ ഉൽപ്പന്നവുമായി മുന്നോട്ട് പോകുക അതിനാൽ സ്ക്രൂ ത്രെഡുകൾ പോലുള്ള താൽക്കാലിക ഫാസ്റ്റണിംഗ് ടെക്നിക്കുകൾ ഞാൻ അവിടെ ഉപയോഗിക്കുന്നു ഈ സ്ക്രൂ ത്രെഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ഒരു സാധാരണ ഫ്ലാറ്റ് ഷാഫ്റ്റ് പോലെയല്ലെന്ന് നിങ്ങൾക്കു കാണാം ഒരു സാധാരണ ഫ്ലാറ്റ് ഷാഫ്റ്റ് ഉപയോഗിച്ച് വ്യാസം അളക്കാൻ എളുപ്പമാണ് സ്ക്രൂ ത്രെഡിന്റെ കാര്യത്തിൽ ഇത് പ്രവർത്തിക്കുന്ന ഒരു ത്രെഡാണ് അതിനാൽ നിങ്ങൾക്ക് ഒരു കൊടുമുടി ഉണ്ട് നിങ്ങൾക്ക് ഒരു താഴ്വരയുണ്ട് ഇപ്പോൾ നിങ്ങൾ ദൂരം അളക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നിന്ന് അടുത്ത പിച്ചിലേക്ക് ഒരു വ്യതിയാനം ഉണ്ടാകും അല്ലെങ്കിൽ ഞാൻ ഒരു വരിയിൽ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ഇടാൻ ശ്രമിച്ചാൽ നമുക്ക് സമ്പർക്കത്തിൽ തികഞ്ഞ ഫ്ലാറ്റ്നെസ് ലഭിച്ചേക്കില്ല അതിനാൽ സാധാരണ അളക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല കൂടാതെ വ്യത്യസ്ത തരം സ്ക്രൂ ത്രെഡുകൾ M 6 M 4 M 5 M 8 M 3 ഇവിടെ കാണാം ഇവ ചില സ്കെയിലുകളെയാണ് സൂചിപ്പിക്കുന്നത് ഈ സ്കെയിൽ ഒരു സ്റ്റാൻഡേർഡ് സ്കെയിലാണ് അതിനാൽ ഇത് എനിക്ക് പരസ്പരം മാറ്റാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു അതിനാൽ ഞങ്ങൾ ഈ കോഴ്സിൽ തുടക്കത്തിൽ പഠിച്ചത് പരസ്പര കൈമാറ്റത്തിന്റെ ആവശ്യകതയെന്താണ് അതിനാൽ പരസ്പരം മാറ്റാവുന്ന ആശയം നിലനിർത്തുന്നതിന് നമുക്ക് ഒരു മാനദണ്ഡം ആവശ്യമാണ് അതിനാൽ M3 M4 M5 M6 M8 ഇവ ഇന്ന് വിപണിയിൽ ലഭ്യമായ വിവിധ തരം ടാപ്പുകളാണ് ഈ ഘട്ടങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഒരു ത്രെഡ് സൃഷ്ടിക്കുന്നു ഈ ത്രെഡുകൾ ഒരു അന്താരാഷ്ട്ര നിലവാരമാണ് പിന്തുടരുന്നത് ഈ പ്രഭാഷണത്തിൽ നമ്മൾ എന്താണ് കാണാൻ പോകുന്നത് എന്ന് നോക്കാം സ്ക്രൂ ത്രെഡുകളുടെ അളവുകൾ എന്താണെന്ന് വിശദീകരിക്കാൻ നമ്മൾ ശ്രമിക്കും പിന്നെ ചില സ്ക്രൂ ത്രെഡ് മെട്രോളജി ടെർമിനോളജികൾ നമ്മൾ കാണും ത്രെഡ് ഗേജുകൾ നമ്മൾ കാണും തുടർന്ന് നമ്മൾ ചിത്രങ്ങൾ എങ്ങനെ അളക്കും എന്ന് കാണാൻ ശ്രമിക്കും അതിനാൽ ഗേജുകൾ മനസിലാക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് അതിനാൽ ഇവിടെയുള്ള ത്രെഡ് ഗേജുകൾ ഒരു "ഗോ നോ ഗോ ഗേജ്" പോലെയാണ് അതിനാൽ നമുക്ക് ഈ ത്രെഡ് ഗേജ് ഉപയോഗിക്കാം പക്ഷേ നിങ്ങൾക്ക് അളവുകൾ ചെയ്യണമെങ്കിൽ നമ്മൾ വിവിധ അളവുകൾക്ക് വിധേയമാക്കുകയും ഒടുവിൽ പിച്ച് ചെയ്യുകയും ചെയ്യും സ്ക്രൂ ത്രെഡുകളുടെ അളവ് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ നിന്ന് സ്ക്രൂ ത്രെഡ് ജോമട്രി വികസിച്ചു 1840 ൽ തന്നെ നിർദ്ദേശിച്ച വിറ്റ്വർത്ത് ത്രെഡ് സിസ്റ്റം ഉപയോഗത്തിലുള്ള ആദ്യത്തെ ഡോക്യുമെന്റഡ് സ്ക്രൂ ത്രെഡ് പ്രൊഫൈൽ ആയി വ്യാവസായിക വിപ്ലവം ആരംഭിച്ച ആ സമയമായിരുന്നു അത് അതിനാൽ വലിയ മെഷീനുകൾ നിർമ്മിക്കാൻ തുടങ്ങി ഈ മെഷീനുകളിൽ ചലിക്കുന്ന ധാരാളം മെക്കാനിക്കൽ ഭാഗങ്ങളുണ്ടായിരുന്നു അതിനാൽ ആളുകൾ അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയുന്ന ചില ഫാസ്റ്റണിംഗ് ടെക്നിക്കുകൾക്കായി തിരയുകയായിരുന്നു ഏതാനും ദശാബ്ദങ്ങൾക്ക് ശേഷം ഈ വ്യാവസായിക വിപ്ലവത്തിനുശേഷം അല്ലെങ്കിൽ വ്യാവസായിക കാലഘട്ടത്തിൽ സ്ക്രൂ ത്രെഡുകളുടെ വിൽപ്പനക്കാരുടെ സംവിധാനം അമേരിക്കയിൽ നിലവിൽ വന്നു ഈ രണ്ട് സംവിധാനങ്ങളും വളരെക്കാലം പ്രായോഗികമായിരുന്നു ഇവ കൂടുതൽ സമഗ്രമായ ഏകീകൃത സ്ക്രൂ ത്രെഡ് സിസ്റ്റത്തിന് അടിത്തറയിട്ടു കാരണം ലോകത്ത് ഇഞ്ച് സ്കെയിൽ പിന്തുടരുന്ന ചില രാജ്യങ്ങളുണ്ടെങ്കിൽ മില്ലിമീറ്റർ സ്കെയിൽ പിന്തുടരുന്ന മറ്റു ചില രാജ്യങ്ങളുമുണ്ട് അതിനാൽ ഇഞ്ചിനും മില്ലിമീറ്ററിനും ഇടയിൽ എല്ലായ്പ്പോഴും ഒരു വ്യത്യാസമുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് വേണമെങ്കിൽ ലോകമെമ്പാടും നിങ്ങളുടെ ഭാഗങ്ങൾ വിതരണം ചെയ്യാൻ ആരംഭിക്കണം തുടർന്ന് ഇഞ്ചിൽ നിന്ന് നിങ്ങൾ മില്ലിമീറ്ററിലേക്ക് മാറ്റണം ഇത് ഇപ്പോൾ ഒരു ഏകീകൃത മാനദണ്ഡമാണ് അതിനാൽ സ്ക്രൂ ത്രെഡിനായി നമ്മൾ ഈ മില്ലിമീറ്റർ സ്റ്റാൻഡേർഡ് മില്ലിമീറ്റർ യൂണിറ്റുകൾ ഉപയോഗിക്കാൻ ആരംഭിക്കുന്നു വ്യാവസായിക മെട്രോളജിയിൽ സ്ക്രൂ ത്രെഡ് ഗേജിംഗ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു നീളവും വ്യാസവും പോലുള്ള ജോമട്രി സവിശേഷതകൾ അളക്കുന്നതിന് വിപരീതമായി സ്ക്രൂ ത്രെഡ് അളക്കൽ കൂടുതൽ സങ്കീർണ്ണമാണ് നിങ്ങൾ ഇത് ഒരു ഷാഫ്റ്റാണ് എന്ന് എടുക്കുകയാണെങ്കിൽ ഈ ഷാഫ്റ്റിന്റെ അളവ് അളക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നമ്മൾ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നു തുടർന്ന് നമ്മൾ വ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അതിനു മുകളിൽ ഒരു സ്ക്രൂ ത്രെഡ് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ സങ്കീർണ്ണത വർദ്ധിക്കുന്നു അതിനാൽ എന്താണ് സങ്കീർണ്ണതകൾ പിച്ച് വ്യാസം ലീഡ് ഹെലിക്സ് ഫ്ലാങ്ക് ആംഗിൾ തുടങ്ങി പരസ്പരബന്ധിതമായ ജോമട്രി വശം നമ്മൾ അളക്കേണ്ടതുണ്ട് അടുത്ത സ്ലൈഡിൽ ഇവ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം ഇവിടെ ഞാൻ ലെജന്ഡ്സ് പട്ടികപ്പെടുത്തി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ചിത്രം വായിക്കാൻ ശ്രമിക്കാം നമുക്ക് പടിപടിയായി പോകാം ആദ്യം നമ്മൾ പിച്ച് എടുക്കാൻ ശ്രമിക്കും അപ്പോൾ എന്താണ് പിച്ച് ഒരു സ്ക്രൂ ത്രെഡിൽ തുടർച്ചയായ 2 പീക്കുകൾക്കിടയിൽ ഉള്ള അളവ് അളക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഇതിനെ പിച്ച് എന്ന് വിളിക്കുന്നു അതിനാൽ പിച്ച് മാറാം നിങ്ങളുടെ ആവശ്യകതയനുസരിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയ പിച്ച് വലിയ പിച്ച് ലഭിക്കും അതിനർത്ഥം പിച്ച് വലുതാണെങ്കിൽ ആ ത്രെഡുകളുടെ എണ്ണം കുറവായിരിക്കും ഇവിടെ പ്രാബല്യത്തിൽ വരുന്ന ലോഡുകളും വ്യാസവും അടിസ്ഥാനമാക്കിയാണ് പിച്ചുകളുടെ തീരുമാനം എടുക്കുക അതിനാൽ ഇത് പിച്ച് ആണ് അടുത്തത് പ്രധാന വ്യാസമായിരിക്കും അതിനാൽ ഈ പോയിന്റിനിടയിൽ പ്രധാന വ്യാസം സംഭവിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ഒരു ക്രെസ്റ് കാണാം അതിനാൽ ഏറ്റവും മുകളിലുള്ള പോയിന്റിൽ നിന്ന് നിങ്ങൾ എതിർവശത്തെ ഏറ്റവും മുകളിലുള്ള പോയിന്റിലേക്ക് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ പ്രധാന വ്യാസം എന്ന് വിളിക്കുന്നു അടുത്തത് ചെറിയ വ്യാസമായിരിക്കും ചെറിയ വ്യാസം പ്രധാന വ്യാസത്തിന്റെ ചെറിയ വ്യാസം ആയിരിക്കും ചെറിയ വ്യാസം ഈ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പുറത്തേക്ക് പോകുന്നു അതിനാൽ ഇവിടെ നിന്ന് ഇത് ഇവിടെ പോകുന്നു ഇത് ചെറിയ വ്യാസമായിരിക്കും പിച്ച് വ്യാസം vഎന്താണ് പിച്ച് വ്യാസം ഈ പോയിന്റിലൂടെ നിങ്ങൾ കാണുന്ന അക്ഷത്തിന്റെ ഏകോപത്തിന്റെ മധ്യത്തിൽ നിന്നാണ് നമ്മൾ അതിനെ പിച്ച് വ്യാസം എന്ന് വിളിക്കുന്നു എന്താണ് പിച്ച് ലൈൻ ആക്സിസ് ലൈനിനെ പിച്ച് ലൈൻ സ്ക്രൂവിന്റെ അക്ഷം എന്ന് വിളിക്കുന്നു അതാണ് അതിന്റെ മധ്യഭാഗം അപ്പോൾ അഡെൻഡം എന്താണെന്ന് കാണാൻ നമ്മൾ ശ്രമിക്കും ഒപ്പം എന്താണ് ഡെഡെൻഡം എന്ന് കാണുകയും ചെയ്യും അഡെൻഡം എന്നാൽ കേന്ദ്ര അച്ചുതണ്ട് മുതൽ ക്രെസ്റ് വരെ അതിനെ അഡെൻഡം എന്ന് വിളിക്കുന്നു ഇവിടെ നിന്ന് കേന്ദ്ര അക്ഷത്തിൽ നിന്ന് ഇതിനെ അഡെൻഡം എന്ന് വിളിക്കുന്നു അപ്പോൾ എന്താണ് ഡെഡെൻഡം കേന്ദ്ര അച്ചുതണ്ട് മുതൽ നിങ്ങൾ സാങ്കൽപ്പികമായി വലതുവശത്ത് ഒരു ക്രെസ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആംഗിളിലേക്ക് വെട്ടിച്ചുരുക്കുക ഇതിനെ ഡെഡെൻഡം എന്ന് വിളിക്കുന്നു ത്രെഡിന്റെ ആഴം മുകളിൽ നിന്ന് താഴത്തെ ഭാഗം വരെ ആയിരിക്കും അത് ഒരു ത്രെഡിൽ നിന്ന് മറ്റൊന്നിലേക്ക് ക്രെസ്റ് മുതൽ താഴ്വര വരെ അതിനാൽ അതിനെ ത്രെഡിന്റെ ആഴം എന്ന് വിളിക്കുന്നു ഇവിടെ 2 ഫ്ലാറ്റ് തലം തമ്മിലുള്ള ഈആംഗിളിനെ ത്രെഡിന്റെ ആംഗിൾ എന്ന് വിളിക്കുന്നു ഈ ഭാഗത്തെ ത്രെഡിന്റെ ആംഗിൾ എന്ന് വിളിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് പരന്ന തലം ഉണ്ട് ഈ പരന്ന തലം ഉപയോഗിച്ച് നമ്മൾ ഒരു ആംഗിൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ അതിനെ ത്രെഡ് ആംഗിൾ എന്ന് വിളിക്കുന്നു ഇവിടെയുള്ള ത്രെഡുമായി ബന്ധപ്പെട്ട് എന്താണ് ഫ്ലാങ്ക് ആംഗിൾ നിങ്ങൾ പ്ലെയിനിനും സിംഗിൾ ത്രെഡിന്റെ മധ്യ അക്ഷത്തിനുമിടയിൽ ഒരെണ്ണം എടുക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അഗ്രം എന്താണെന്ന് കാണാൻ ശ്രമിക്കും നിങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കുകയും പരന്ന തലം നീട്ടാൻ ശ്രമിക്കുകയും അത് ഒരു ഘട്ടത്തിൽ കണ്ടുമുട്ടുകയും ചെയ്യുന്നുവെങ്കിൽ അതിനാൽ ആ പോയിന്റിനെ അഗ്രം എന്ന് വിളിക്കുന്നു അതേ രീതിയിൽ അടിയിൽ എവിടെ കണ്ടുമുട്ടിയാലും അതിനെ റൂട്ട് എന്ന് വിളിക്കുന്നു അതിനാൽ സാങ്കൽപ്പിക രേഖയിൽ സ്പർശിക്കുന്ന ഈ ഭാഗത്തെ ക്രെസ്റ് എന്ന് വിളിക്കുന്നു അതിനാൽ ക്രെസ്റ് മുകളിൽ സംഭവിക്കുന്നു റൂട്ട് അടിയിൽ സംഭവിക്കുന്നു ക്രെസ്റ് മുകളിൽ ചുവടെയുള്ളത് റൂട്ട് അതിനാൽ അവശേഷിക്കുന്നത് അംഗുലാർ പിച്ച് ആണ് ഈ വിപുലീകൃത ത്രെഡിന്റെ സാങ്കൽപ്പിക ഡൌൺ പോയിന്റ് മുതൽ ഏറ്റവും മുകളിലുള്ള പോയിന്റ് വരെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് അംഗുലാർ പിച്ച് അതിനാൽ നിങ്ങൾ ത്രെഡുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഷാഫ്റ്റ് വ്യാസവും നീളവും കൂടാതെ ഈ പദങ്ങൾ അളക്കേണ്ടിവരുമ്പോൾ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ ഇവയാണ് സ്ക്രൂ ത്രെഡ് പദാവലി അല്പം വ്യത്യസ്തമാണ് പക്ഷേ സാധാരണയായി നമ്മൾ സംസാരിച്ചത് പിച്ച് ആണ് തുടർന്ന് നമ്മൾ അഡെൻഡം ഡെഡെൻഡം ത്രെഡിന്റെ ആഴം ത്രെഡിന്റെ ആംഗിൾ എന്നിവയെക്കുറിച്ച് സംസാരിച്ചു അതിനാൽ ഒരൊറ്റ ത്രെഡ് ഉള്ളപ്പോൾ ത്രെഡിന്റെ ആംഗിൾ സബ്ടെൻഡുചെയ്ത ആംഗിളിനെ തീറ്റ 𝜭 എന്നും വിളിക്കാം സെൻട്രൽ ആക്സിസുമായി ബന്ധപ്പെടുമ്പോൾ ഇത് ആൽഫയായി 𝞪 മാറുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് ഓരോന്നിന്റെയും വിശദീകരണങ്ങൾ കാണാം സ്ക്രൂ ത്രെഡ് അമേരിക്കൻ സൊസൈറ്റി ഫോർ ടൂൾ ആൻഡ് മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ് American Society for Tool and Manufacturing Engineering ASTME സ്ക്രൂ ത്രെഡ് ഇനിപ്പറയുന്ന രീതിയിൽ നിർവചിച്ചു ഒരു സിലിണ്ടറിന്റെയോ ആംഗിളിന്റെയോ ബാഹ്യമോ ആന്തരികമോ ആയ ഉപരിതലത്തിൽ യൂണിഫോം വിഭാഗത്തിന്റെ തുടർച്ചയായ ഹെലിക്കൽ ഗ്രൂവ് സൃഷ്ടിച്ച് നിർമ്മിക്കുന്ന ഹെലിക്കൽ റിഡ്ജാണ് സ്ക്രൂ ത്രെഡ് തുടർച്ചയായ ഹെലിക്കൽ ഗ്രൂവ് സൃഷ്ടിച്ചുകൊണ്ട് ഹെലിക്കൽ റിഡ്ജ് നിർമ്മിക്കുന്നു ബാഹ്യത്തിലും ആന്തരികത്തിലും ഏകീകൃത ക്രോസ് സെക്ഷനാണ് ഹെലിക്കൽ ഗ്രൂവ് നിങ്ങൾ ബോൾട്ടിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ബാഹ്യമാണ് നിങ്ങൾ നട്ടിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ആന്തരികമാണ് സ്ക്രൂകൾക്ക് ബാഹ്യ നട്ട് ഉണ്ടാകും അതിന്റെ ആന്തരിക ഉപരിതലം ഒരു സിലിണ്ടർ അല്ലെങ്കിൽ ഒരു കോൺ അതാണ് സ്ക്രൂ ത്രെഡ് ത്രെഡിന്റെ രൂപം ഒരു അക്ഷീയ വിഭാഗത്തിൽ കാണുന്നതുപോലെ ഒരു പൂർണ്ണ ത്രെഡിന്റെ രൂപമാണ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ആണ് ജനപ്രിയ ത്രെഡുകളുടെ രൂപങ്ങൾ വിറ്റ്വർത്ത് ഒരു സ്റ്റാൻഡേർഡാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബ്രിട്ടീഷ് അസോസിയേഷൻ നക്കിൾ ബട്ടർസ് യൂണിഫൈഡ് ആക്മി എന്നിവയും പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡുകൾ ആണ് അതിനാൽ ഇന്ന് ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായ ത്രെഡാണ് ആക്മി പക്ഷേ നമുക്കു വിറ്റ്വർത്ത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബ്രിട്ടീഷ് അസോസിയേഷൻ നക്കിൾ ബട്ടർസ് യൂണിഫൈഡ് എന്നിവയും കൂടി നോക്കാം ആന്തരിക ത്രെഡ് വർക്ക് പീസിലെ ബാഹ്യ ഉപരിതലത്തിൽ രൂപംകൊണ്ട സ്ക്രൂ ത്രെഡിനെ ബാഹ്യ ത്രെഡ് എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് ബോൾട്ട് സ്റ്റഡ് ഒരു ബാഹ്യ ത്രെഡ് ആണ് വർക്ക് പീസിലെ ആന്തരിക ഉപരിതലത്തിൽ രൂപംകൊണ്ട സ്ക്രൂ ത്രെഡിനെ ആന്തരിക ത്രെഡ് എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് ഒരു നട്ടിൽ ത്രെഡിന്റെ അക്ഷം എന്താണ് അതിനെ പിച്ച് ലൈൻ എന്ന് വിളിക്കുന്നു അതിനാൽ ത്രെഡിന്റെ അച്ചുതണ്ടിനെ പിച്ച് ലൈൻ എന്ന് വിളിക്കുന്നു അതിനാൽ ത്രെഡിന്റെ അച്ചുതണ്ട് ത്രെഡിന്റെ മധ്യത്തിലുടനീളം രേഖാംശത്തിന്റെ സാങ്കൽപ്പിക രേഖയെ ത്രെഡിന്റെ അച്ചുതണ്ട് എന്ന് വിളിക്കുന്നു പിച്ച് ലൈനാണ് അടുത്തത് അടിസ്ഥാന ത്രികോണമാണ് അതിനാൽ പരസ്പരം കണ്ടുമുട്ടുന്നതുവരെ ഫ്ലാങ്കുകൾ പരന്നുകിടക്കുമ്പോൾ പരമോന്നതമോ അഗ്രമോ രൂപം കൊള്ളുന്ന സാങ്കൽപ്പിക ത്രികോണമാണിത് ഇതൊരു സ്ക്രൂ ത്രെഡ് ആയിരിക്കും എന്നാൽ നിങ്ങൾ അതിൽ അതിനെ പ്രോജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു അടിസ്ഥാന ത്രികോണം രൂപം കൊള്ളുന്നു ഇത് ഒരു ഇമേജാണ് അതിനാൽ നിങ്ങൾക്ക് ഇതുപോലെ പോകാൻ കഴിയുമെങ്കിൽ ഇതാണ് നിങ്ങളുടെ ആൽഫ 𝞪 ഇതാണ് നിങ്ങളുടെ തീറ്റ 𝜭 ഫ്ലാങ്ക് പരസ്പരം മുട്ടുമ്പോൾ ഒരു അഗ്രമോ ശീർഷകമോ ഉണ്ടാക്കുന്നു ത്രെഡിന്റെ ആംഗിൾ അക്ഷീയ തലത്തിൽ അളക്കുന്ന ത്രെഡിന്റെ പലക തമ്മിലുള്ള ആംഗിൾ ആണ് ഇത് ഫ്ലാങ്ക് തീറ്റ 𝜭 തമ്മിലുള്ള ആംഗിൾ ആണ് ഇത് ഒരു തലം ആണെന്ന് ഞാൻ പറഞ്ഞു ഇത് ഈ 2 അരികുകൾക്കിടയിലുള്ള ഒരു ഭാഗമാണ് ഇത് ഉൾക്കൊള്ളുന്ന ആംഗിളിനെ തീറ്റ 𝜭 എന്ന് വിളിക്കുന്നു ഈ പരാമീറ്ററുകളെല്ലാം അളക്കേണ്ടതുണ്ട് ഒരു ത്രെഡിന്റെ പലകയ്ക്കും അക്ഷത്തിന് ലംബമായും രൂപംകൊണ്ട ആംഗിൾ ആണ് ഫ്ലാങ്ക് ആംഗിൾ ലംബ രേഖയ്ക്കും അരികിലെ ആൽഫയ്ക്കും ഇടയിൽ അതായതു നിങ്ങളുടെ ത്രെഡിന്റെ ഒരു പലകയ്ക്കും ത്രെഡിന്റെ അച്ചുതണ്ടിന് ലംബമായി രൂപംകൊണ്ട ആംഗിൾ ആണ് അടിസ്ഥാന ത്രികോണത്തിന്റെ അഗ്രത്തിലൂടെ കടന്നു പോകുന്നതിനെ ആണ് ഫ്ലാങ്ക് ആംഗിൾ എന്ന് വിളിക്കുന്നത് അതിനാൽ ഇതാണ് അടിസ്ഥാന ത്രികോണം അതിനാൽ ഈ ആംഗിളിനോടനുബന്ധിച്ച് ഒരു സാങ്കൽപ്പിക ലംബ രേഖ വരയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ ഫ്ലാങ്ക് ആംഗിൾ എന്ന് വിളിക്കുന്നു പിന്നെ എന്താണ് പിച്ച് ത്രെഡിന്റെ അക്ഷത്തിന് സമാന്തരമായി അളക്കുന്ന തൊട്ടടുത്തുള്ള ത്രെഡുകളിലെ 2 അനുബന്ധ പോയിന്റുകൾ തമ്മിലുള്ള ദൂരമാണ് പിച്ച് അതിനാൽ ഇത് തൊട്ടടുത്തുള്ള ത്രെഡുകളിലെ 2 അനുബന്ധ പോയിന്റുകൾ തമ്മിലുള്ള ദൂരമാണ് ത്രെഡിന്റെ അക്ഷത്തിന് സമാന്തരമായി അളക്കുന്നത് പിച്ച് എന്ന് വിളിക്കുന്നു എന്താണ് ലീഡ് സ്ക്രൂവിന് ഒരു പൂർണ്ണ ഭ്രമണം നൽകുമ്പോൾ സ്ക്രൂ നീക്കുന്ന അച്ചുതണ്ടിന്റെ ദൂരമാണ് ലീഡ് എന്ന് വിളിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ഷാഫ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ക്രൂവും നട്ടും ഉണ്ട് ഈ നട്ട് തിരിക്കുമ്പോൾ അത് ചലിക്കുന്ന അക്ഷീയ അകലം അല്ലെങ്കിൽ സ്ക്രൂ നീക്കുന്ന യഥാർത്ഥ ദൂരമാണ് സ്ക്രൂവിന് ഒരു പൂർണ്ണ റിവൊല്യൂഷൻ നൽകുമ്പോൾ അതിനെ ലീഡ് എന്ന് വിളിക്കുന്നു പിന്നെ അടുത്തത് ലീഡ് ആംഗിൾ lead angle ആണ് പിച്ചിന്റെ നീളം അച്ചുതണ്ടിന്റെ ലംബമായിരിക്കുമ്പോൾ ത്രെഡിന്റെ ഹെലിക്സ് നിർമ്മിച്ച ആംഗിൾ ആണിത് പിച്ച് ലൈനിൽ ത്രെഡിന്റെ ഹെലിക്സ് അച്ചുതണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആംഗിൾ ആണ് ഹെലിക്സ് ആംഗിൾ ഇത് ഒരു അക്ഷീയ തലത്തിൽ അളക്കുന്നു പ്രധാന വ്യാസവും ചെറിയ വ്യാസവും എന്താണെന്ന് നമുക്കു കാണാം ബാഹ്യ ത്രെഡിന്റെ കാര്യത്തിൽ പ്രധാന വ്യാസം പ്രധാന വ്യാസം പ്രധാന സിലിണ്ടറിന്റെ വ്യാസമാണ് ഇത് സ്ക്രൂവിനൊപ്പം ഏകോപിപ്പിക്കുകയും ബാഹ്യ ത്രെഡിന്റെ ക്രെസ്റ്റിൽ സ്പർശിക്കുകയും ചെയ്യുന്നു അതിനാൽ പ്രധാന വ്യാസം 3 ആണ് നിർവചനം നമുക്ക് നോക്കാം ഇത് ഒരു പ്രധാന സിലിണ്ടറിന്റെ ചിത്രത്തിന്റെ പ്രധാന വ്യാസം ആണ് അത് സാങ്കൽപ്പികമാണ് അത് സ്ക്രൂവിന് കോയാക്സിയാലും ആ ക്രെസ്റ്റിനെ സ്പർശിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇതിനെ പ്രധാന വ്യാസം എന്ന് വിളിക്കുന്നു ബാഹ്യ ത്രെഡിന്റെ കാര്യത്തിൽ ചെറിയ വ്യാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മൈനർ വ്യാസം മൈനർ സിലിണ്ടറിന്റെ വ്യാസമാണ് അത് സ്ക്രൂവിനു കോയാക്സിയ്ൽ ആയിരിക്കുകയും ബാഹ്യ ത്രെഡിന്റെ റൂട്ട് സ്പർശിക്കുകയും ചെയ്യുന്നു അതിനാൽ ആന്തരിക ത്രെഡുകളെ സംബന്ധിച്ചിടത്തോളം സിലിണ്ടറിന്റെ വ്യാസം ത്രെഡിന്റെ ക്രെസ്റ്റിനെ സ്പർശിക്കുന്നു ഇത് ആന്തരികത്തിനുള്ളതാണ് അതിനാൽ ഇതിനെ റൂട്ട് വ്യാസം ഫലപ്രദമായ വ്യാസം അല്ലെങ്കിൽ പിച്ച് വ്യാസം എന്ന് വിളിക്കുന്നു ഇത് ഒരു പിച്ച് സിലിണ്ടറിന്റെ വ്യാസമാണ് അത് സ്ക്രൂവിന്റെ അച്ചുതണ്ടിനൊപ്പം കോയാക്സിയൽ ആയിരിക്കുകയും ചെയ്യുന്നു അത് ത്രെഡിന്റെ വീതിയും അവയ്ക്കിടയിലുള്ള ഇടവും തുല്യമാക്കും പൊതുവേ ഓരോ സ്ക്രൂ ത്രെഡും ഫലപ്രദമായ വ്യാസത്താൽ വ്യക്തമാക്കുന്നു കാരണം ഇത് സ്ക്രൂവും നട്ടും തമ്മിലുള്ള ഫിറ്റിന്റെ ഗുണനിലവാരം തീരുമാനിക്കുന്നു അതിനാൽ ഇതും വളരെ പ്രധാനമാണ് അതിനാൽ പ്രധാന വ്യാസമോ ചെറിയ വ്യാസമോ ഉള്ളപ്പോൾ അത് ബാഹ്യ ത്രെഡാണെങ്കിൽ ആന്തരിക ത്രെഡിൽ അത് ക്രെസ്റ്റും റൂട്ടും ആയിരിക്കും ഇവിടെ സ്ക്രൂവിനും നട്ടിനുമിടയിൽ സംഭവിക്കേണ്ട ഫിറ്റിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ പിച്ച് വ്യാസം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു അതിനാൽ ഈ കാര്യങ്ങളെല്ലാം ഈ ജോമട്രിയിൽ നിർവചിച്ചിരിക്കുന്നു പിച്ച് വ്യാസം 4 എന്നും കാണാം അതിനാൽ ഇതാണ് പിച്ച് വ്യാസം ക്രെസ്റ്റും ട്രൌഫും തമ്മിലുള്ള ചെറിയ വ്യാസം ഇതാണ് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡും മൾട്ടിപ്പിൾ സ്റ്റാർട്ട് ത്രെഡുകളും ഉണ്ടാകാം സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ആണെങ്കിൽ ലീഡ് പിച്ചിന് തുല്യമാണ് എന്താണ് ലീഡ് ഇപ്പോൾ ഞാൻ സ്ക്രൂ തിരിക്കുക അല്ലെങ്കിൽ നട്ട് തിരിക്കുക ആണെങ്കിൽ അതിന്റെ മുന്നേറ്റം ലെഡ് അല്ലെങ്കിൽ പിച്ചിന് തുല്യമാണ് എന്താണ് പിച്ച് തുടർച്ചയായ 2 ത്രെഡുകൾ തമ്മിലുള്ള ദൂരം തുടർച്ചയായ 2 പീക്സ് അല്ലെങ്കിൽ 2 താഴ്വരകളെ പിച്ച് എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് സിംഗിൾ ത്രെഡാണെങ്കിൽ ലീഡ് പിച്ചിന് തുല്യമായിരിക്കും ഉദാഹരണത്തിന് നിങ്ങൾ ഒരു മോട്ടോർ അറ്റാച്ചുചെയ്യുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ ഒരു സ്ക്രൂ അറ്റാച്ചുചെയ്യുക അതിനാൽ മോട്ടോർ കറങ്ങുന്നു ഇതാണ് സ്ക്രൂ അതിനു മുകളിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ടേബിൾൻറെ ഏത് ഭ്രമണത്തിനായി സ്ക്രൂ മുന്നേറും അല്ലെങ്കിൽ ടേബിൾ നീങ്ങുന്നു

അതിനാൽ ഒരു റൊട്ടേഷന് എന്താണ് ലീഡ് പിച്ചിന് തുല്യമായ ലീഡ് എന്താണ് അതാണ് നമ്മൾ പറയുന്നത് അതിനാൽ സ്ക്രൂ നീക്കിയ യഥാർത്ഥ ദൂരം ത്രെഡിന്റെ പിച്ചിന് തുല്യമാണ് അതിനാൽ ഇത് ഒരു പ്രധാന പാരാമീറ്ററാണ് അതിനാൽ മൾട്ടിപ്പിൾ സ്റ്റാർട്ട് ത്രെഡ് ലീഡ് എന്നത് പിച്ചിന്റെ അവിഭാജ്യ ഗുണിതമാണ് അതനുസരിച്ച് നിങ്ങൾക്ക് ഡബിൾ സ്റ്റാർട്ട് ട്രിപ്പിൾ സ്റ്റാർട്ട് എന്നിവ ഉപയോഗിക്കാം നമ്മുടെ ആവശ്യമനുസരിച്ച് ഡബിൾ സ്റ്റാർട്ട് സ്ക്രൂവിന്റെ ഒരു പൂർണ്ണ ഭ്രമണത്തിനായി 2 പിച്ച് നീളത്തിന് തുല്യമായ തുക ഉപയോഗിച്ച് നീങ്ങും അതിനാൽ നിങ്ങൾക്ക് ഡബിൾ സ്റ്റാർട്ട് നടത്താം നിങ്ങൾക്ക് ടോപ് ലീഡ് ഉള്ളപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റാർട്ട് നടത്താം അതിനാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ ശ്രമിക്കാം പകുതി കറക്കി നിങ്ങൾക്ക് കുപ്പി ഉറപ്പിക്കാൻ ശ്രമിക്കാം ലിഡ് ഉള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ നമുക്ക് എല്ലായ്പ്പോഴും മൾട്ടിപ്പിൾ സ്റ്റാർട്ട് ത്രെഡ് ഉണ്ടാകും സിംഗിൾ സ്റ്റാർട്ട് എന്നത് സാധാരണയായി ഒരു നട്ട് ബോൾട്ടിലാണ് മൾട്ടിപ്പിൾ സ്റ്റാർട്ട് പ്രത്യേക ആപ്ലിക്കേഷനായി നിങ്ങൾക്ക് ഒന്നിലധികം സ്റ്റാർട്ട് ത്രെഡ് ഉണ്ടായിരിക്കാം സിംഗിൾ സ്റ്റാർട്ട് മൾട്ടിപ്പിൾ സ്റ്റാർട്ട് എന്നിവ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മനസിലാക്കുക അതിനാൽ അളക്കേണ്ടതോ അളക്കാൻ എളുപ്പമുള്ളതോ ആയ സ്ക്രൂ ത്രെഡ് ഘടകങ്ങൾ ഏതാണ് പ്രധാന വ്യാസം ചെറിയ വ്യാസം ഫലപ്രദമായ പിച്ച് ആംഗിൾ ത്രെഡുകളുടെ രൂപം എന്നിവ വളരെ പ്രധാനമാണ് ത്രെഡുകളുടെ രൂപം വിറ്റ്വർത്ത് ത്രെഡ് ആക്മി ത്രെഡ് ഇവ വ്യത്യസ്ത ത്രെഡുകളാണ് അതിനാൽ ഇവ 5 ഘടകങ്ങൾ അല്ലെങ്കിൽ 6 ഘടകങ്ങളാണ് അവ ഒരു സ്ക്രൂവിൽ ഉണ്ട് അത് അളക്കേണ്ടതുണ്ട് അതിനാൽ കാത്തിരിക്കുന്ന സമയത്ത് സ്ക്രൂവിന്റെയും നട്ടിന്റെയും പ്രകടനം വിലയിരുത്തുന്നു ആന്തരിക ഉപരിതലം ബാഹ്യ ഉപരിതലം ആദ്യം നമുക്ക് നോക്കാം പ്രധാന വ്യാസം എങ്ങനെ അളക്കും ഒരു പ്രധാന വ്യാസം അളക്കുന്നതിനുള്ള ഏറ്റവും ലളിതമായ മാർഗം ഒരു സ്ക്രൂ ത്രെഡ് മൈക്രോമീറ്റർ ഉപയോഗിച്ച് അളക്കുക എന്നതാണ് ഒരു സ്ക്രൂ ത്രെഡ് മൈക്രോമീറ്ററിൽ സാധാരണയായി നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഒരു ഫിക്സഡ് മീറ്റർ ഉണ്ട് ഇവിടെ നമുക്ക് ചലിക്കുന്ന ഒന്ന് ഉണ്ട് നമ്മൾ കോൺടാക്റ്റിംഗ് പോയിൻറ് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ സ്ക്രൂ ത്രെഡുകൾ ആനുവൽ ത്രെഡുകളുമായി കൃത്യമായി കണ്ടു മുട്ടുന്നു അപ്പോൾ നമുക്ക് വ്യാസം അളക്കാൻ കഴിയും എന്നിരുന്നാലും കൂടുതൽ കൃത്യമായ അളവെടുപ്പിനായി ഒരു ബെഞ്ച് മൈക്രോമീറ്റർ ഉപയോഗിക്കാൻ ശുപാർശ ചെയ്യുന്നു ബെഞ്ച് മൈക്രോമീറ്ററിന്റെ പ്രധാന ഗുണം ഇൻഡിക്കേറ്റർ അളക്കുന്ന സിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്നതാണ് അതിനാൽ ഫിഡ്യൂഷ്യൽ ഇൻഡിക്കേറ്ററിൽ ഒരു സമ്മർദ്ദം ചെലുത്താൻ കഴിയും ഇവിടെ മെഷീൻ ഒരു കംപരേറ്റർ ആയി ഉപയോഗിക്കുന്നു സ്ക്രൂ ത്രെഡുകളുടെ പ്രധാന വ്യാസം അളക്കാൻ പ്രധാനമായും ബെഞ്ച് മൈക്രോമീറ്റർ ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഫിഡ്യൂഷ്യൽ ഇൻഡിക്കേറ്റർ ഉണ്ട് ചെറിയ വ്യാസം എങ്ങനെ അളക്കും ചെറിയ വ്യാസം അളക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ഫ്ലോട്ടിംഗ് കാരേജ് മൈക്രോമീറ്റർ ഉപയോഗിച്ച് അളക്കുക എന്നതാണ് കബാരറ്റർ കുറിച്ച് പഠിക്കുമ്പോൾ ഇതും നമ്മൾ കണ്ടിരുന്നു ചെറിയ വ്യാസം ഒരു താരതമ്യ പ്രക്രിയയുടെ അളവാണ് ത്രെഡുകളുടെ റൂട്ടുമായി സമ്പർക്കം പുലർത്തുന്ന ചെറിയ വി പീസുകൾ ഇവിടെ ഉപയോഗിക്കുന്നു വി പീസിലെ ഉൾപ്പെടുത്തിയ ആംഗിൾ ത്രെഡിന്റെ ആംഗിളിനേക്കാൾ കുറവാണെങ്കിൽ അത്തരം വി പീസുകൾ തിരഞ്ഞെടുക്കപ്പെടും അതിനാൽ പ്രധാന വ്യാസവും ചെറിയ വ്യാസവും ഫ്ലോട്ടിംഗ് കാരേജ് മൈക്രോമീറ്ററും ബെഞ്ച് മൈക്രോമീറ്ററും ഉപയോഗിച്ച് അളക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതാണ് ഫിഡ്യൂഷ്യൽ ഇൻഡിക്കേറ്റർ ഒരു ക്ലാമ്പും അതിനാൽ ഇവിടെ ഒരു ക്ലാമ്പുണ്ട് അത് നമുക്ക് ഡെഡ് സെന്റർ ആയി എടുക്കാം മറ്റൊന്ന് നമുക്ക് ഒരു ലൈവ് സെന്റർ ആയി എടുക്കാം നമ്മൾ ഈ സ്ക്രൂ ത്രെഡ് ഇവിടെ നീക്കുന്നു തുടർന്ന് ഈ 2 ക്ലാമ്പുകൾക്കിടയിൽ നമ്മൾ അത് പിടിക്കുന്നു ഇത് ഒരു മൈക്രോമീറ്റർ വായനയാണ് കാണുന്നത് ഇതിന്റെ ത്രെഡ് പ്രധാന വ്യാസം എന്താണ് ഇത് ഉപയോഗിച്ച് പ്രധാന വ്യാസവും ചെറിയ വ്യാസവും അളക്കാൻ കഴിയും പിച്ച് വ്യാസം എന്നും വിളിക്കപ്പെടുന്ന ഫലപ്രദമായ വ്യാസം വളരെ പ്രധാനമാണ് ഇത് അളക്കേണ്ടതുണ്ട് അതിനാൽ ഒരു ത്രെഡ് അളക്കൽ എല്ലായ്പ്പോഴും ഒരു വയർ മെത്തേഡ് ഉപയോഗിച്ച് നടത്തുന്നു ഇത് വളരെ ലളിതവും ജനപ്രിയവുമാണ് എന്താണ് വയർ മെത്തേഡ് 2 ത്രെഡുകൾക്കിടയിൽ നിങ്ങൾ ഒരു വയർ ഇട്ടു എന്നിട്ട് നിങ്ങൾ ഒരു വയർ കൂടി ഇടുക ഇപ്പോൾ നിങ്ങൾക്ക് വയർ വ്യാസം അറിയാം

ട്രിഗണോമെട്രിക് കണക്കുകൂട്ടലുകളിലൂടെ ഇതിൽ നിന്നുള്ള വയർ വ്യാസം നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും ഇഫക്റ്റ് പിച്ച് വ്യാസം എന്താണ് ഈ ഡയഗ്രാമിൽ 4 എന്നത് പിച്ച് വ്യാസം ആണ് അത് നമുക്കു അളക്കാൻ താൽപ്പര്യമുണ്ട് എങ്കിൽ അതിനു മൂന്ന് രീതികളുണ്ട്അവ 1 വയർ രീതി 2 വയർ രീതി എന്നും മൂന്നാമത്തേതിനെ മികച്ച വലുപ്പമുള്ള വയറിന്റെ വ്യാസം എന്നും വിളിക്കുന്നു തുടർന്ന് ചർച്ചയുടെ അടുത്ത വിഷയം സ്ക്രൂ ത്രെഡ് ഘടകങ്ങളുടെ അളവുകൾ ആയിരിക്കും അതിനാൽ ഇവിടെ 3 തരം രീതികളുണ്ട് 1 വയർ 2 വയർ മികച്ച വലുപ്പമുള്ള വയർ അതിനാൽ ഒരു വയർ രീതിയിൽ ഒരു സാധാരണ ഗേജുകൾ അളവിന്റെ സൈദ്ധാന്തിക മൂല്യത്തിന് തുല്യമാണെങ്കിൽ ഈ രീതി ഉപയോഗിക്കുന്നു അതിനാൽ ഇവിടെ മൈക്രോമീറ്റർ റീഡിംഗുകൾ 2 അല്ലെങ്കിൽ 3 വ്യത്യസ്ത സ്ഥലങ്ങളിൽ എടുക്കുകയും ശരാശരി മൂല്യം എടുക്കുകയും ചെയ്യുന്നു അതിനാൽ സാധാരണയായി മെട്രോളജിയിലോ അളവുകളിലോ പോലും നമ്മൾ എടുക്കുന്ന അളവുകൾ ആവർത്തിക്കണം നിങ്ങൾ പ്രക്രിയ ആവർത്തിക്കുമ്പോൾ നമുക്ക് 3 അല്ലെങ്കിൽ 4 സെറ്റ് ഡാറ്റ ലഭിക്കും അതിനുശേഷം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ ശരാശരി കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നു തുടർന്ന് നമുക്ക് ആവശ്യമുള്ള തരം രീതി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക ഇവിടെയും നമ്മൾ ചെയ്യുന്നത് 3 റീഡിംഗുകൾ എടുക്കാൻ ശ്രമിക്കുകയും അതിന്റെ ശരാശരി മൂല്യം എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിനാൽ ഈ മൂല്യത്തെ സ്റ്റാൻഡേർഡ് ഗേജിനൊപ്പം ലഭിച്ച മൂല്യവുമായി താരതമ്യം ചെയ്യുന്നു തത്ഫലമായുണ്ടാകുന്ന വ്യത്യാസം സ്ക്രൂവിന്റെ ഫലപ്രദമായ വ്യാസത്തിലെ പിശകിന്റെ പ്രതിഫലനമാണ് ഇവിടെ ഞാൻ വിവരിക്കേണ്ട 2 അല്ലെങ്കിൽ 3 പാരാമീറ്ററുകൾ ഉണ്ട് ആദ്യത്തേതിനെ M എന്ന് വിളിക്കുന്നു M എന്നത് വയറുകളിലുള്ള ദൂരമാണ് De വ്യാസം ഫലപ്രദമായ വ്യാസം കൂടാതെ T എന്നത് വയറിനു കീഴിലുള്ള അളവാണ് കൂടാതെ P എന്നത് കറക്ഷൻ ഫാക്ടർ ആണ് അതിനാൽ വിവിധ രീതികൾക്കായി ഈ P കണ്ടെത്തണം DeTP T M 2d Pകറക്ഷൻ ഫാക്ടർ d മികച്ച വലുപ്പമുള്ള വയറിന്റെ വ്യാസം M വയറുകളിലുള്ള ദൂരം T വയറിന്റെ അടിയിലെ അളവ് De ഫലപ്രദമായ വ്യാസം അതിനാൽ 2 വയർ രീതി ഉപയോഗിക്കുമ്പോൾ ഇത് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാകും

നമ്മൾ 2 വയർ രീതി പറയുവാൻ പോകുന്നു ട്രയാങ്കിൾ OFD നിന്ന് സ്ക്രൂവിന്റെ ഒരു വശത്ത് മാത്രമേ AG കറക്ഷൻ ഫാക്ടർന് കാരണമാകൂ എന്നതിനാൽ എതിർവശത്ത് കണക്കാക്കുന്നതിന് ഈ മൂല്യം 2 കൊണ്ട് ഗുണിക്കണം അതിനാൽ ആകെ കറക്ഷൻ ഫാക്ടർ ഇപ്രകാരമാണ് അതിനാൽ അടിസ്ഥാനപരമായി ഇത് സിംഗിൾ വയർ ആയിരുന്നു ഇതിൽ നമ്മൾ 2 വയർ രീതി ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ഒരു വയർ വെക്കാൻ ശ്രമിക്കുന്നു എതിർവശത്ത് മറ്റൊരു വയർ വെക്കുന്നു തുടർന്ന് നമ്മൾ സ്ക്രൂ ഗേജ് വഴി റീഡിങ് എടുക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഇത് ഒരു പെർഫെക്റ്റ് കോൺടാക്റ്റാണ് അതിനാൽ ഇതിലേക്കുള്ള ദൂരം M എന്ന് വിളിക്കുന്നു അതിനാൽ ഇതിനുശേഷം AG തിരുത്തലിനായി കണക്കാക്കുന്നതിനാൽ സ്ക്രൂവിന്റെ ഒരു വശത്ത് മാത്രം കറക്ഷൻ ഫാക്ടർ കണക്കാക്കുന്നു അതിനാൽ എതിർവശത്തുള്ളത് കണക്കാക്കാൻ നമ്മൾ 2 തവണ ഗുണിക്കണം അതിനാൽ ഇപ്പോൾ P എന്നത് 2 മടങ്ങ് A G യ്ക്ക് തുല്യമാണ് പക്ഷേ P ബൈ 2 കോട്ട് x by 2 മൈനസ് d കോസിക് x by 2 മൈനസ് 1 ആയിരിക്കും അതിനാൽ അളക്കാൻ കഴിയുമെങ്കിലും മൈക്രോമീറ്റർ ഉപയോഗിച്ച് വയറുകൾ തമ്മിലുള്ള ദൂരമായി M അളക്കുന്നു ഈ രീതി എറർ കണക്കാക്കലാണ്

അതിനാൽ നമ്മൾ ഇത് അളക്കുന്നുണ്ടെങ്കിലും ഈ രീതിയിൽ ഇപ്പോഴും പിശകുകൾ ഉണ്ട് അതിനാൽ ഇവിടെ ഇത് 2 മൈനസ് 1 ആണ് അതിനാൽ ഇത് 2 വയർ രീതിയ്ക്കുള്ളതാണ് നമ്മൾ ഈ P കണ്ടെത്താൻ ശ്രമിക്കുന്നു അതിനാൽ P ആണ് കറക്ഷൻ ഫാക്ടർ ഇപ്പോൾ ഈ കറക്ഷൻ ഫാക്ടർ എവിടെയാണ് ഉപയോഗിക്കുന്നത് ഈ എഫക്റ്റീവ് ഡൈമീറ്റർ വയറിന്റെ സൈദ്ധാന്തിക അളവിന് തുല്യമാണ് അല്ലെങ്കിൽ "P" ആണ് ഇതിനുള്ള കറക്ഷൻ ഫാക്ടർ അതിനാൽ ടി പ്ലസ് കറക്ഷൻ ഫാക്ടർ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഫലപ്രദമായ വ്യാസം ലഭിക്കും ഈ രീതിക്കും ഒരു എറർ ഉണ്ട് അതിനാൽ മികച്ച വയർ രീതി എന്ന് വിളിക്കുന്ന ഈ രീതിയാണ് ഏറ്റവും മികച്ച രീതി അതിനാൽ മികച്ച വയർ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് d കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ട്രയാങ്കിൾ OAB മികച്ച വയർ രീതിയിൽ വ്യാസം Fig 8 25 ABp4 pത്രെഡുകൾക്കുള്ള പിച്ച് മികച്ച വയർ രീതിയിൽ വ്യാസം അതിനാൽ 2 വയർ രീതി ഉപയോഗിച്ച് നമുക്കു ഒരു സ്ക്രൂവിന്റെ ഫലപ്രദമായ വ്യാസം അളക്കാൻ ശ്രമിക്കാം ഒരു സ്കെയിൽ ഉപയോഗിച്ച് അളക്കുന്ന 10 ത്രെഡുകളിലുടനീളമുള്ള ദൂരം 12 5 മില്ലിമീറ്ററാണ് ആദ്യം മെട്രിക് ത്രെഡുകൾക്കുള്ള മികച്ച വയർ വലുപ്പം നിർണ്ണയിക്കുക ഇവിടെ നൽകിയിട്ടുള്ളത് ഒരു പിച്ച് ആണ് ഇത് 10 ത്രെഡുകൾക്ക് 12 5 മില്ലിമീറ്ററിന് തുല്യമാണ് അതിനാൽ ബെസ്റ് വയർ മെത്തേഡ് വ്യാസത്തിന്റെ ഫലം എന്താണ് ഇത് പി 2 ഗുണം സിക്കന്റ് എക്സ് ബൈ 2 ആണ് ഇവിടെ x ഇന്റെ വാല്യൂ മെട്രിക് ത്രെഡിന് 60 ഡിഗ്രിക്ക് തുല്യമാണ് അതിനാൽ P യുടെ വാല്യൂ " 1 25 ബൈ 2 സിക്കന്റ് 60 ബൈ 2 ആണ് അതിനാൽ ഇത് 0 722 മില്ലിമീറ്ററിന് തുല്യമാണ് ഉപയോഗിച്ച മെട്രിക് ത്രെഡിന്റെ മികച്ച വയർ വലുപ്പമായിരിക്കും ഇത് ഇത് 2 വയർ രീതി ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അതിനാൽ മികച്ച വ്യാസമുള്ള വയർ എടുക്കുന്നു തുടർന്ന് പിച്ച് കണ്ടെത്തുന്നതിന് നമ്മൾ 2 വയർ രീതി സ്വീകരിക്കാനും ശ്രമിക്കുന്നു അതിനാൽ അടുത്തത് 3 വയർ രീതിയാണ്

h പിച്ച് ലൈനിൽ നിന്നുള്ള വയർ മധ്യത്തിന്റെ ഉയരം ആണെങ്കിൽ h OC BC വയറുകളിലൂടെയുള്ള ദൂരം ME2h2r r വയർ ആരം അതിനാൽ നമുക്ക് ഒരു പ്രശ്നം പരീക്ഷിച്ച് നോക്കാം ഒരു മെട്രിക് സ്ക്രീൻ ത്രെഡ് അതിന്റെ ഫലപ്രദമായ വ്യാസം അളക്കുന്നതിന് 2 വയർ രീതി ഉപയോഗിച്ച് പരിശോധിക്കുകയും ഇനിപ്പറയുന്ന ഡാറ്റ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഫലപ്രദമായ വ്യാസം DeTP T വയറുകളുടെ കീഴിലുള്ള അളവ് P കറക്ഷൻ ഫാക്ടർ T M - 2d P p2 cot x2 d csc x2 1 Therefore P 1 252 cot 602 0 722 csc 602 1 P 0 3605 mm T 25 08 - 20 722 23 236 mm De 23 636 0 3605 23 9965 mm അടുത്തത് പിച്ചിന്റെ അളവാണ് ഇപ്പോൾ വരെ നിങ്ങൾ പ്രധാന വ്യാസം പ്രധാന വ്യാസം അളക്കൽ തുടർന്ന് ചെറിയ വ്യാസം അളക്കൽ എന്നിവ കണ്ടു അതിനുശേഷം ഫലപ്രദമായ വ്യാസം അളക്കുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ നമ്മൾ പിച്ച് അളക്കാനുള്ള വിദ്യകൾ കാണാൻ പോകുന്നു പിച്ച് അളക്കുന്നത് പ്രോഗ്രസ്സിവ് പിച്ച് എറർ ആണ് ടൂൾ വർക്ക് വേഗത അനുപാതം തെറ്റാണെങ്കിലും സ്ഥിരതയുള്ളപ്പോൾ ഈ എറർ സംഭവിക്കുന്നു അതിനാൽ ഇത് പ്രോഗ്രസ്സിവ് പിച്ച് ആണ് പ്രധാന വ്യാസം ചെറിയ വ്യാസം ഫലപ്രദമായ വ്യാസം എന്നിവ അളന്നതിനുശേഷം ചർച്ചയുടെ അടുത്ത വിഷയം പിച്ച് എറർ ആണ് ത്രെഡ് ആംഗിൾ എറർ പിച്ച് ആണ് കൂടാതെ ത്രെഡ് ആംഗിൾ മീറ്റിംഗ് ഉപരിതലത്തിന്റെ പുരോഗമന കർശനതയ്ക്കും കാരണമാകുന്നു അതിനാൽ ഈ എറർ പിച്ച് എറർ എന്ന് വിളിക്കുന്നു വർക്ക് പീസിലെ കറങ്ങുന്ന വേഗതയിലേക്ക് ഉപകരണ വേഗത എറർ ന് കാരണം Improper ratio Cutting tool velocityRotatory velocity of Wp അതിനാൽ ഉപകരണത്തിന്റെ വേഗത കുറയ്ക്കുന്നതിന്റെ അനുചിതമായ അനുപാതമാണിത് വർക്ക് പീസിലെ ഭ്രമണം ചെയ്യുന്ന വേഗത ഇത് അനുചിതമായ അനുപാതമാണ് പിച്ച് എറർ 3 ആയി തിരിക്കാം ഒന്നിനെ പ്രോഗ്രസീവ് പിച്ച് എറർ എന്നും അടുത്തതിനെ പീരിയോഡിക് പിച്ച് എറർ എന്നും വിളിക്കുന്നു മൂന്നാമത്തേതിനെ ഇറഗുലർ എറർസ് എന്ന് വിളിക്കുന്നു അതിനെ ഡ്രങ്കൻ ത്രെഡ് എറർ എന്ന് വിളിക്കുന്നു ടൂൾ വർക്ക് വേഗത അനുപാതം തെറ്റും സ്ഥിരവുമാകുമ്പോൾ പ്രോഗ്രസ്സിവ് പിച്ച് എറർ സംഭവിക്കുന്നു സാധാരണയായി മെഷീന്റെ ലെഡ് സ്ക്രൂവിലെ പിച്ച് എറർ കാരണമാണ് ഇതിനെ പ്രോഗ്രസ്സിവ് പിച്ച് എറർ എന്ന് വിളിക്കുന്നത് കൃത്യമല്ലാത്ത ഗിയർ ട്രെയിൻ അല്ലെങ്കിൽ ഏകദേശ ഗിയർ ട്രെയിൻ എന്നിവയാണ് പിച്ച് എറർന് കാരണമാകുന്ന മറ്റ് ഘടകങ്ങൾ അതിനാൽ ഗിയർ ട്രെയിൻ ഉണ്ടെങ്കിൽ ടോർക്ക് കുറയ്ക്കുന്നതിനോ വർദ്ധിപ്പിക്കുന്നതിനോ പരസ്പരം ചേർന്നിരിക്കുന്ന ഈ ഗിയറുകളിലേക്ക് ഈ ഇന്റേൺ കൈമാറുന്നു അതിനെ നമ്മൾ ഗിയർ ട്രെയിൻ എന്ന് വിളിക്കുന്നു അതിനാൽ അടുത്തതിനെ പീരിയോഡിക് പിച്ച് എറർ എന്ന് വിളിക്കുന്നു ടൂൾ വർക്ക് വേഗത അനുപാതം സ്ഥിരമല്ലാത്തപ്പോൾ ഈ എറർ സംഭവിക്കുന്നു മുമ്പത്തേതിൽ ഇത് സ്ഥിരമാണ് അതിനാൽ സ്ഥിരമായ ടൂൾ വർക്ക് വേഗത എന്താണ് ഗിയർ ട്രെയിനുകളിലെ പിച്ച് എറർ അല്ലെങ്കിൽ ലീഡ് സ്ക്രൂവിന്റെ അച്ചുതണ്ട് ചലനം എന്നിവയാണ് പ്രധാന ഘടകങ്ങൾ ത്രസ്റ്റ് ബെയറിംഗുകൾ ദ്രവിച്ചു പോയതിനാൽ എല്ലായ്പ്പോഴും ആനുകാലിക പിച്ച് എറർ ഉണ്ടാകും ഒരു പിച്ചിന്റെ ഇടവേളകളിൽ ആനുകാലിക എറർ കാരണം ഡ്രങ്കൻ എറർ സംഭവിക്കുന്നു ഇവിടെ ത്രെഡ് അക്ഷത്തിന് സമാന്തരമായി അളക്കുന്ന പിച്ച് ശരിയായിരിക്കും പക്ഷേ ത്രെഡ് യഥാർത്ഥ ഹെലിക്സ് ആംഗിളിലേക്ക് മുറിച്ചിട്ടില്ല ഇതിനെ ഇറഗുലർ എറർ എന്ന് വിളിക്കുന്നു ഈ എറർ ഒരു സ്ക്രൂവിന്റെ പ്രവർത്തനത്തിന് ഗുരുതരമായ പ്രശ്നമുണ്ടാക്കില്ല പക്ഷേ നമ്മൾ വലിയ വ്യാസങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധേയമായ ഒരു എറർന് കാരണമായേക്കാം ഇതൊരു പിച്ച് അളക്കുന്ന യന്ത്രമാണ് അതിനാൽ പിച്ച് അളക്കാനും എറർ കണക്കാക്കാനും നമുക്കു ശ്രമിക്കാം അടുത്തത് ത്രെഡ് ഗേജ് ആയിരിക്കും സ്ക്രൂ ത്രെഡുകളുടെ ത്രെഡ് ഗേജ് വലുപ്പത്തിന്റെ നിർദ്ദിഷ്ട പരിധിയിലേക്ക് സ്ക്രൂ ത്രെഡ് എത്രത്തോളം സ്ഥിരീകരിക്കുന്നുവെന്ന് വിലയിരുത്തുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് അതിനാൽ നിങ്ങൾക്ക് ഇതിനകം ഒരു ഗേജ് ഉണ്ട് നിങ്ങൾ ഇത് സ്ക്രൂവിന്റെ മുകളിൽ വയ്ക്കുകയും തുടർന്ന് സ്ക്രൂ ത്രെഡുകൾ കാണുകയും അത് എത്രമാത്രം ക്രമീകരിക്കുന്നുവെന്ന് കാണാനും ഈ ഗേജ് കൊണ്ട് സാധിക്കും ഇനിപ്പറയുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ത്രെഡ് ഗേജ് തരംതിരിക്കുന്നത് ആപ്ലിക്കേഷൻ തരത്തെ അടിസ്ഥാനമാക്കി ത്രെഡ് ഗേജിന്റെ വർഗ്ഗീകരണം അവയുടെ രൂപങ്ങളെ അടിസ്ഥാനമാക്കി ത്രെഡ് ഗേജിന്റെ വർഗ്ഗീകരണം ആപ്ലിക്കേഷൻ തരം വർക്കിംഗ് ഗേജ് പരിശോധന ഗേജ് മാസ്റ്റർ ഗേജ് എന്നിവ അടിസ്ഥാനമാക്കി ത്രെഡ് ഗേജിന്റെ വർഗ്ഗീകരണം സാധ്യമാണ് അതിനാൽ ഈ പ്രവർത്തന പരിശോധനയും പിന്നീട് മാസ്റ്ററുകളും എന്താണെന്ന് നമ്മൾ തുടക്കത്തിൽ പഠിച്ചു ഫോം അടിസ്ഥാനമാക്കിയുള്ള ത്രെഡ് ഗേജിന്റെ വർഗ്ഗീകരണം നിങ്ങൾക്ക് കണ്ടെത്തുന്നതിന് ഒരു പ്ലഗ് സ്ക്രൂ ഗേജ് അല്ലെങ്കിൽ റിംഗ് സ്ക്രൂ ഗേജ് ഉണ്ടാകും അതിനാൽ ഗോ ഗേജ് നോ ഗോ ഗേജ് എന്നിവയ്ക്കായി ടെയ്ലറുടെ തത്ത്വം പിന്തുടരാൻ നമ്മൾ വീണ്ടും ശ്രമിക്കും ഒരു ഗോ ഗേജ് ഇൽ ജോമട്രി സവിശേഷതകളും പരിശോധിക്കണം അത് പൂർണ്ണ രൂപത്തിലായിരിക്കണം കൂടാതെ നോ ഗോ ഗേജ് ഒരു സമയം ഒരു അളവ് മാത്രമേ പരിശോധിക്കൂ അത് ഹ്രസ്വമായിരിക്കും അതിനാൽ അങ്ങനെയാണ് "ഗോ ഗേജ്" "നോ ഗോ ഗേജ്" കൊണ്ട് നിങ്ങൾക്ക് അത് മനസിലാക്കാൻ ശ്രമിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് വർക്കിംഗ് ഗേജ് ഇൻസ്പെക്ഷൻ ഗേജ് മാസ്റ്റർ ഗേജ് എന്നിവ ആപ്ലിക്കേഷനെ അടിസ്ഥാനമാക്കിയും ഫോമിനെ അടിസ്ഥാനമാക്കി വർഗ്ഗീകരണം നടത്തുമ്പോൾ അത് പ്ലഗ് തരം റിംഗ് തരം എന്നിവയും ഉപയോഗിക്കാം പ്ലഗ് തരം എന്നാൽ ഒരു നട്ട് ഉണ്ടെങ്കിൽ അത് പ്ലഗ് തരം രണ്ടും ഉണ്ടെങ്കിൽ പ്ലഗ് റിംഗ് എന്നിവ ഇവിടെ ഉപയോഗിക്കാം പ്ലഗ്സ് സ്ക്രൂ ഗേജ് ഒരു നേരായ ത്രെഡ് പ്ലഗ് ഗേജ് ഒരു സ്ക്രൂ ത്രെഡിന്റെ അടിസ്ഥാന ഘടകത്തിന്റെ കൃത്യത ഉറപ്പുനൽകുന്നു അതായത് പ്രധാന വ്യാസം പിച്ച് വ്യാസം റൂട്ട് ക്ലിയറൻസ് ലീഡ് ഫ്ലാങ്ക് ആംഗിൾ ഒരു ടേപ്പർ ത്രെഡ് പ്ലഗ് ഗേജ് ചെക്കുകൾ ഈ ഘടകങ്ങൾക്കെല്ലാം പുറമേ ടേപ്പറും മുൻവശത്തിന്റെ നീളവും മുൻവശത്തെ ഗേജ് നോച്ചിലേക്കുള്ള നീളവും പരിശോധിക്കുന്നു അതിനാൽ ഇത് ടേപ്പറിലെ ഈ അളവുകളെല്ലാം പരിശോധിക്കുന്നു നിങ്ങൾ ഒരു പ്ലഗ് ടക്ക് ചെയ്യുമ്പോൾ പ്രധാന വ്യാസം പിച്ച് വ്യാസം റൂട്ട് ക്ലിയറൻസ് ലീഡ് ഫ്ലാങ്ക് ആംഗിൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു

ബോൾട്ട് റിംഗ് എക്സ്റ്റേണൽ പോലുള്ള ബാഹ്യ ത്രെഡ് ഫോം പരിശോധിക്കാൻ റിംഗ്സ് സ്ക്രൂ ഗേജ് ഉപയോഗിക്കുന്നു പ്ലഗ് ഗേജിന് സമാനമായി ഫലപ്രദമായ വ്യാസം പരിശോധിക്കുന്നതിന് ഗോ ഗേജ്" "നോ ഗോ ഗേജ്" എന്നിവയുടെ പൂർണ്ണരൂപമാണ് പരിധി ഗേജ് സംവിധാനം നൽകുന്നത് അതിനാൽ നമുക്ക് പ്ലസ് ഗേജ് സ്ക്രൂ ഗേജും അളക്കുന്നതിനുള്ള റിംഗ് സ്ക്രൂ ഗേജും ഉണ്ടാകും അതിനാൽ നമുക്ക് ഇനിപ്പറയുന്ന പോയിന്റുകൾ റീക്യാപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യം സ്ക്രൂ ത്രെഡ് അളക്കുന്നതിന്റെ ആമുഖം നമ്മൾ കണ്ടു തുടർന്ന് നമ്മൾ പദങ്ങൾ കണ്ടു തുടർന്ന് വിവിധ ത്രെഡ് ഘടകങ്ങൾ കണ്ടു തുടർന്ന് സ്ക്രൂ ത്രെഡ് ഘടകങ്ങളുടെ അളവ് പ്രധാന അച്ചുതണ്ട് മൈനർ ആക്സിസ് മെഷർമെന്റ് ഗേജ് തരങ്ങൾ തുടർന്ന് പ്ലഗ് സ്ക്രീൻ ഗേജ് റിംഗ് സ്ക്രൂ ഗേജ് എന്നിവയും ചർച്ച ചെയ്തു ഇതോടെ ഈ അധ്യായത്തിന്റെ അവസാനമാണ് നന്ദി